എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ നേരത്തെ കവർ സ്ലിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അത് വളരെ കളിപ്പിക്കുന്ന പരിപാടിയാണ് കാരണം ഈ സ്ലിപ്പുകൾ വിൽക്കുന്നവർ പറയുന്നത് അവരുടെ സാധനം വളരെ നല്ല ഗുണമേന്മയുള്ളതാണ് എന്നാണ് പക്ഷേ ഇത്രയും വർഷത്തെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു നമ്മൾ ഇവയെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്ക് അതിനായിട്ട് പ്ലാസ്മാ ക്ലീനിങ് ആസിഡ് ക്ലീനിങ് ചെയ്യാവുന്നതാണ് പ്ലാസ്മാ ക്ലീനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു പ്ലാസ്മയുടെ സജ്ജീകരണം ആവശ്യമാണ് പ്ലാസ്മാ ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സാധനം വന്ന പെട്ടിയുടെ സംഘ സംഖ്യ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് വെച്ച് ഈ സാധനം അയച്ചവരെ നമുക്ക് പിന്നീട് പിന്തുടരാൻ സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാസിനെ ഒരു സോപ്പിന്റെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക എന്നതാണ് അത് എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് വിട്ടു തന്നിരിക്കുന്നു വളരെ കുറച്ച് സോപ്പിന്റെ ലായനിയിൽ മുക്കി വയ്ക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാഗ്നെറ്റിക് സ്റ്റിറർ അതിനകത്ത് വെച്ച് ഈ വെള്ളത്തെ കറക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാരണം അത് ഈ വെള്ളം ഗ്ലാസിൻറെ എല്ലാ ഉപരിതലത്തിലും എത്തിക്കും സോപ്പിന്റെ വെള്ളത്തിൽ മുക്കി വച്ചതിനുശേഷം ഇതിനെ നിങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ഈ വെള്ളത്തിൽ ഇതിനെ വേണമെങ്കിൽ 5 6 മണിക്കൂറോളം അല്ലെങ്കിൽ ഇതിൽ ഒരു രാത്രി മുഴുവനും വെച്ച് കൊണ്ടിരിക്കാം അത് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കഴുകി വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അത് കാരണം സമയം ലഭിക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഇതിൻറെ ഉപരിതലം ചെറുതായി കൊത്തി എടുക്കുന്നതാണ് അതിനായി ഇതിനെ പിരാന്ഹാ ലായിനി ആയിട്ടുള്ള HNO3 അല്ലെങ്കിൽ HF മായി രാസമാറ്റത്തിനായി വിധേയമാക്കേണ്ടതാണ് അതോടെ ഇതിൻറെ ഉപരിതലം പരുപരുത്തതായി മാറുന്നു ഈ ഗ്ലാസ് കവർ സ്ലിപ്പിന്റെ ഉപരിതലത്തിൽ വരുന്ന പരുപരുത്ത രീതി ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് വളരെ ഉപകാരം ഉണ്ടാക്കും കാരണം അത് പ്രോട്ടീനിനെ അഡ്സോർബ് ചെയ്യാൻ സഹായിക്കും ഇനി ഈ ഉപരിതലം പരുപരുത്തത് ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെള്ളത്തെ കളയുക എന്നതാണ് സോപ്പിന്റെ വെള്ളം വെച്ച് ഇവയെല്ലാം കഴുകിയതിനുശേഷം പിരാന്ഹ അല്ലെങ്കിൽ HF ലായിനി നമ്മൾ ഉപയോഗിച്ച് കഴുകുമ്പോൾ സൂക്ഷിക്കേണ്ടത് അമ്ലം ദേഹത്ത് തെറിച്ചു വീഴാതിരിക്കാനാണ് തെറിച്ചുവീണ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൊള്ളും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണ്ട രീതിയിലുള്ള ഗ്ലൌസും എല്ലാം ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ മാസ്കും ഉപയോഗിക്കാം നിങ്ങൾ ജീവശാസ്ത്ര പരീക്ഷണശാലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നവർ ആണെങ്കിൽ രസതന്ത്രങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ലായിരിക്കും അങ്ങനെ ഉള്ളവർ ചിലപ്പോൾ അശ്രദ്ധ കാണിക്കാം അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം പിന്നെ ചെയ്യുമ്പോൾ കഴിവതും സിങ്കിന്റെ അടുത്തുനിന്ന് ചെയ്യുക കാരണം എപ്പോഴെങ്കിലും തെറിച്ചു വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻതന്നെ അത് കഴുകി കളയാൻ സാധിക്കും കഴിവതും അങ്ങനെ വീഴാതെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HF ഇതിലേക്ക് ഓഴിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അവിടെ തന്നെ വയ്ക്കുക അതിനെ കറക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു 678 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വയ്ക്കുക അല്ലെങ്കിൽ ഒരു പകുതി ദിവസം വയ്ക്കുക ഈ അമ്ലത്തെ അല്ലെങ്കിൽ HF നെ കളയുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കുക അതിന് പ്രത്യേകം സജ്ജീകരണങ്ങൾ ആവശ്യമാണ് കാരണം അതിനെ വെറുതെ കളയാൻ സാധ്യമല്ല അവിടെ സംഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി എന്തെങ്കിലും സജ്ജീകരിക്കാം ഇതിനെ സിങ്കിലേക്ക് ഒഴിച്ച് കളയരുത് കാരണം ഇതിനെ വൻതോതിൽ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ അത് പരിസരത്തുള്ള ജലാശയങ്ങൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ശ്രദ്ധിച്ചു പാലിക്കുക ഇനി വീണ്ടും നിങ്ങൾ ഇവയെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക ഈ കഴുകുന്നത് വളരെ പ്രധാനമാണ് ഇത് കഴുകുമ്പോൾ നിങ്ങൾ ഗ്ലൌസ് ഇടണം ഒരുപാട് പ്രാവശ്യം കഴുകുക ഗ്ലൌസ് ഇട്ടിട്ട് ഇതിനെ വീണ്ടും വീണ്ടും കഴുകുക വെള്ളത്തെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ നോക്കുക അതോടെ അവശേഷിക്കുന്ന അമ്ലം പോകണം അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ 100 ആൽക്കഹോൾ ഇതിലേക്ക് ഒഴിക്കുക എല്ലാ വെള്ളവും കളഞ്ഞതിനുശേഷം 100 ആൽക്കഹോൾ ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനെ പരുപരുത്തത് ആക്കി ഇതാണ് പരുപരുത്തത് ആക്കുന്ന പ്രക്രിയ അതിനുശേഷം ഇനി നിങ്ങൾ ഇതിനെ വെള്ളം കൊണ്ട് കഴുകുകയാണ് നന്നായി കഴുകിയതിനുശേഷം ഈ കവർ സ്ലിപ്പുകൾ ഈ ബീക്കറിന്റെ അകത്ത് വെക്കുക ഇനി ഇതിലേക്ക് 100 ശതമാനം ആൽക്കഹോൾ എടുത്ത് ഒഴിക്കുക ഇതിലേക്ക് പാരഫിൻ ഇട്ട് കൊടുക്കാം ഇതിനുശേഷം ഇവയെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് സാധാരണ ഞാൻ ഇതിനെ 4 ഡിഗ്രി സെൻറിഗ്രേഡിൽ ആണ് സൂക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ആറ് കവർ സ്ലിപ്പുകൾ ആണ് നിങ്ങളുടെ ജോലിക്ക് ആവശ്യമെന്ന് വെച്ചോളു ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പരിചയം വച്ച് പറയുകയാണ് ഇങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനായി ഒരു ബൻസൺ ബർണർ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റുലാമ്പ് എടുക്കുക ഞാനിവിടെ സ്പിരിറ്റുലാമ്പ് ആണ് വരയ്ക്കുന്നത് ഇനി നിങ്ങൾ ഈ കവർ സ്ലിപ്പിനെ ഒരു ഫോഴ്സെപ്സ് ഉപയോഗിച്ച് വലിച്ച് പുറത്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ കവർ സ്ലിപ്പ് ഇവിടെയുണ്ട് അതിനെ വളരെ സൌമ്യമായി പിടിക്കുക ഇതിനെ സ്പിരിറ്റുലാമ്പ്ന്റെ ജ്വാലയിൽ കാണിക്കേണ്ടതാണ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ കൈ പൊളിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നിങ്ങൾ ചെറുതായിട്ട് മാത്രമേ ജ്വാലയിൽ കാണിക്കാൻ പാടുള്ളൂ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കും അതെന്തെന്നാൽ ചെറുതായി കാർബൺ അവിടെ അടിഞ്ഞുകൂടുന്നത് കാണാൻ സാധിക്കും ചെറുതായിട്ട് കറുത്തു ഇരിക്കുന്നത് അവിടെ കാർബണിന്റെ ഒരു പടലം കാണാൻ പറ്റും പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല ഇത് യഥാർത്ഥത്തിൽ കാർബൺ അവിടെ വരുന്നത് നല്ലതാണ് കാരണം ഇതും എനിക്ക് എൻറെ പരിജ്ഞാനം കൊണ്ട് കിട്ടിയതാണ് അത് പാഠപുസ്തകങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് കാർബണിന്റെ ഒരു പടലം അവിടെ വരും അത് കൊണ്ട് സ്പിരിറ്റുലാമ്പ് കത്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ലാ മിനാർ ഫ്ലോ ഹുഡിനകത്ത് വെച്ച് വേണം അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനകത്തുനിന്നുള്ള വായുസഞ്ചാര ദിശ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇതിനെ തീ ജ്വാലയിൽ വെച്ചതിനുശേഷം ഒരു കറുത്ത പടലം ഇതിൽ വരും എന്നിട്ട് ഇതിനെ ഒരു 15mm ഡിഷിൽ വെക്കുക ഇത് ഇനി ഏതുതരത്തിലുള്ള ആവരണത്തിനും തയ്യാറാണ് പക്ഷേ എപ്പോഴും ഈ കാർബൺ പടലം വന്ന ഉപരിതലം ആണ് നമ്മൾ ആവരണം ചെയ്യാനായി മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കാർബണിന്റെ പടലം വന്ന ഉപരിതലം അതിനെ നമ്മൾ മുകളിലായി വെക്കുന്നു അതിന്റെ മുകളിൽ നമുക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് വെക്കാൻ സാധിക്കും ദ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഇതിൻറെ മുകളിൽ വയ്ക്കുകയാണ് ഇങ്ങനെ ആണ് ഇത് നടക്കുന്നത് ഒരുപാട് പേര് പറയും നിങ്ങളുടെ അടുത്ത് ഗ്ലാസ്സ് കവർ സ്ലിപ്പ് ഒഴിവാക്കാൻ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ എഴുതുന്നത് ഈ ഗ്ലാസ്സ് കവർ സ്ലിപ്പിനെ ഒരിക്കലും ഓട്ടോക്ലേവ് ചെയ്യരുത് അത് ഒരിക്കലും ചെയ്യരുത് കാരണം അത് ചെയ്യുമ്പോൾ ഗ്ലാസ്സ് കവർ സ്ലിപ്പിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും അതിനകത്തുള്ള വലിയ സമ്മർദവും ഈർപ്പവും ഇതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തും അതിൻറെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലും വ്യത്യാസം വരും അത് കാരണം അതിനെ നിരീക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരും ഇത് എല്ലാം മാറ്റിമറിക്കും അതുകൊണ്ട് ഗ്ലാസ്സ് കവർ സ്ലിപ്പിനെ ഓട്ടോക്ലേവ് ചെയ്യുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് ഈ ഗ്ലാസ് കവർ സ്ലിപ്പുകൾ തയ്യാറാകുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോട്ടീനുകൾ ആവരണം ചെയ്യാൻ പറ്റും നമ്മൾ ലാമിനിനേയും ഓർനിതൈനിനേയും കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഓർനിതൈനിനേയും ലാമിനിനേയും കുറിച്ച് പറഞ്ഞിരുന്നു കാരണം ഓർനിതൈൻ ആണല്ലോ ആദ്യം വെക്കേണ്ടത് അതുകഴിഞ്ഞ് അല്ലേ ലാമിനിനെ വെക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊളാജൻ ഉണ്ട് പോളി ഡി ലൈസിൻ ഉണ്ട് അത് ഒരു സിന്തറ്റിക് സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ രണ്ട് നാച്ചുറൽ ഉണ്ട് ഇത് സിന്തറ്റിക് സബ്സ്ട്രേറ്റ് ആണ് ഇനി ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കടക്കാം നല്ല ഗുണമേന്മ ഉള്ള കൊളാജൻ കിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ വർഷങ്ങളായി സെൽ കൾച്ചർ ലാബുകളിൽ തുടർന്നു കൊണ്ടു വരുന്ന കൊളാജൻ കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്തെന്നാൽ റാറ്റ് ടെയിൽ മെതേഡ് ആണ് അതായത് എലിയുടെ വാലിലെ കൊളാജൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ രസകരമാണ് ഇതിന് നമ്മൾ എലിയെ ബലി നൽകേണ്ടി വരുമോ വാല് മാത്രമാണ് എടുക്കുന്നത് ഇതുപോലെ എലിയുടെ വാല് കിട്ടും ഇനി നിങ്ങൾ ഹിമോസ്റ്റാറ്റ് പോലുള്ള സാധനങ്ങൾ എടുക്കുക അതിനുശേഷം അതിനെ അങ്ങോട്ടുമിങ്ങോട്ടും തിരിക്കുക നിങ്ങൾ ഇതിനെ തിരിക്കുമ്പോൾ വെള്ള നൂല് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഈ നൂലുകൾക്ക് നല്ല കട്ടി ഉണ്ടാകും ആ നൂലുകൾ നിങ്ങൾ ശേഖരിക്കുക ഇതുപോലെ വെളുത്ത നിറത്തിലായിരിക്കും നൂലുകൾ നല്ല ഗുണമേന്മ ഉള്ള കൊളാജൻ ആണ് അതിനെ ഏതെങ്കിലുമൊരു ഓർഗാനിക് സോൾവെന്റിൽ അലിയിക്കുക പലതരത്തിലുള്ള ഓർഗാനിക് സോൾവെന്റുകളും ഉണ്ട് അതു ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ രീതികളുമുണ്ട് നിങ്ങൾ അതിനെ അലിയിപ്പിച്ചതിനുശേഷം അവയെ കോളത്തിലൂടെ കടത്തി വിടേണ്ടതാണ് ആവശ്യമുള്ളത് അനുസരിച്ച് HPLC യിലൂടെ അതിനെ ശുദ്ധീകരിച്ച് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എത്രമാത്രം കളങ്കമില്ലാത്തത് വേണമോ അത്രയും രീതിയിൽ ചെയ്യാവുന്നതാണ് ഇത് ഒരു എളുപ്പവഴിയാണ് ഇതിലൂടെ പരീക്ഷണശാലയിൽ കൊളാജൻ കിട്ടുന്നത് കുറയുകയോ അല്ലെങ്കിൽ അവിടെയുള്ള കൊളാജൻ തീർന്നു പോകുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗ്ഗത്തിൽ കൊളാജൻ എടുക്കാവുന്നതാണ് നിങ്ങൾ നേരെ മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് നോക്കുക ഏതെങ്കിലും ഒരു എലിയെ ബലി നൽകാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും എലികളെ എന്തെങ്കിലും ഒരു കാര്യത്തിനുവേണ്ടി ബലി നൽകാറുണ്ട് കഴിവതും എലിയെ തന്നെ ഉപയോഗിക്കുക കാരണം അതിൽ നിന്നു കിട്ടുന്നത് ഗുണമേന്മയുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരു വാൽ എടുക്കുക അതിനെ ഇങ്ങനെ എടുക്കുക ഒന്നിനെ ഈ ദിശയിലേക്ക് കറക്കുക മറ്റേതിനെ എതിർദിശയിലേക്ക് കറക്കുക ഒന്നിനെ ഘടികാരസൂചിയുടെ ദിശയിലേക്ക് കറക്കുക മറ്റേതിനെ എതിർദിശയിലേക്ക് കറക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നൂലുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേക പെരുമാറ്റചട്ടങ്ങൾ ഉണ്ട് നിങ്ങൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ ഇങ്ങനെയാണ് ഒരു എലിയുടെ വാലിയിൽ നിന്ന് കൊളാജൻ വെർതിരിച്ചെടുക്കുന്നത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജെല്ലും 3D ജെല്ലും ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ കനം കുറഞ്ഞ പാള ഇത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ എത്രമാത്രം ഇവയെ ഒരു ലായനിയിൽ ലയിപ്പിക്കുന്നു എന്നതനുസരിച്ച് അപ്പോൾ ഇതാണ് കൊളാജൻ എടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പം ആയിട്ടുള്ള മാർഗ്ഗം ഇനി നമുക്ക് നേരത്തെ നോക്കിയ ഭാഗങ്ങളിലേക്ക് ചെല്ലാം അവിടെ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഉപരിതലത്തെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാമിനിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഈ കളിയിൽ നമുക്ക് ഓർനിതൈനേയും ജലാറ്റിനും കുറിച്ച് പറയാം നമ്മൾ ജലാറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നില്ല അത് ലാമിനിന്റെയും കൊളാജനിന്റെയും ഒരു മിശ്രിതമാണ് പക്ഷേ ഇതെല്ലാം പ്രകൃതിദത്തമായ സാധനങ്ങളാണ് നമുക്ക് ഈ ജലാറ്റിനെ കന്നു കുട്ടിയുടെ തൊലിയിൽ നിന്നും മീനിൻറെ തൊലിയിൽ നിന്നും എടുക്കാവുന്നതാണ് ജലാറ്റിൻ കിട്ടാൻ വേണ്ടി ഒരുപാട് സ്രോതസ്സുകൾ ഉണ്ട് പക്ഷേ ഇതൊരു സങ്കീർണമായ കൊളാജന്റെ മെട്രിക്സ് ആണ് വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്തമായ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഉണ്ട് അതിനെ നമ്മൾ കോൺകനാ വാലിൻ എ എന്നാണ് വിളിക്കുന്നത് അത് ഒരു ലെക്റ്റിൻ ആണ് എന്താണ് ലെക്റ്റിൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും ആയി ഘടിപ്പിച്ചിരിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഉദാഹരണത്തിന് നിങ്ങളുടെ കോശങ്ങളുടെ ഉപരിതലത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ടെന്ന് വയ്ക്കുക ഒരുപാട് കോശങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോശം ഉണ്ട് അതിൽനിന്ന് ഒരുപാട് ഗ്ലൈക്കോ പ്രോട്ടീനുകൾ പുറത്തു വരും ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് വെച്ചാൽ പ്രോട്ടീനിൽ കാർബോഹൈഡ്രേറ്റിൻറെ അംശമുണ്ട് ഇങ്ങനെ ചിന്തിക്കൂ അതായത് ചുവന്ന നിറം ഗ്ലൈക്കോപ്രോട്ടീന്റെ ഭാഗമായ കാർബോഹൈഡ്രേറ്റിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഈ ഗ്ലൈക്കോ പ്രോട്ടീനുകൾ അവിടെ സന്നിഹിതമായിരിക്കുന്ന ലെക്റ്റിനുമായി ബന്ധിക്കപ്പെടുന്നു ഒരു ലെക്റ്റിൻ കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട് കാരണം കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ലെക്റ്റിൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം ഇതുപോലെ ഇരിക്കും ഇവിടെ ലെക്റ്റിന് ഞാൻ നീലനിറം കൊടുക്കുന്നു ഗ്ലൈക്കോ പ്രോട്ടീനുകൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇതുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം ഇതുപോലെ ഫോട്ടോറിസപ്റ്റർ കോശങ്ങളെ പോലുള്ള കോശങ്ങളുണ്ട് പ്രത്യേകിച്ച് മീനുകളിൽ ഉള്ള ഫോട്ടോറിസപ്റ്റർ വേറെ പല ജീവികളിലും ഫോട്ടോറിസപ്റ്റർ ഉണ്ട് അതിൻറെ ഘടന വളരെ ആകർഷകമാണ് നിങ്ങൾക്ക് ഫോട്ടോറിസപ്റ്ററിൻറെ ഘടനയെ കുറിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും രണ്ട് തരത്തിലുള്ള ഫോട്ടോറിസപ്റ്ററുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് റോഡ്സും കോൺസും അത് രണ്ടും കാണാൻ ഇതുപോലെ ഇരിക്കും കോൺ ഫോട്ടോറിസപ്റ്ററുകൾ എല്ലാം കോണാകൃതിയിൽ ആണ് ഇരിക്കുന്നത് റോഡ് ഫോട്ടോറിസപ്റ്ററുകൾ ഇതുപോലിരിക്കും ഈ ഘടനകളേ സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം കണ്ണിലുള്ള വളരെ സവിശേഷതയുള്ള ന്യൂറോണൽ സ്ട്രക്ച്ചറുകൾ ആണെന്ന് ഇത് നിങ്ങളുടെ കോൺ ആണ് ഇത് റോഡും റോഡോപ്സിന്റെ മോളിക്യൂളുകൾ rhodopsin's molecules ഇവിടെയുണ്ട് ഞാനതിനെ പിങ്ക് നിറത്തിൽ കാണിക്കുന്നു അപ്പോൾ റോഡോപ്സിൻ ഇവിടെയുണ്ട് ഏത് നിറത്തെ ആണ് അവ കാണിക്കുക എന്നതനുസരിച്ച് കൊണോപ്സിൻറെ മോളിക്യൂളുകൾ അല്ലെങ്കിൽ നിറം തിരിച്ചറിയുന്നവർ ഇവിടെയുണ്ട് നിങ്ങൾ ഇനി ഈ കോശങ്ങളെ നോക്കുമ്പോൾ വേറൊരു ആകർഷകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് വളരെ വിസ്തൃതമായ ഘടന ആണ് ഉള്ളത് അത് ഇതിൻറെ സെൻസറി അപ്പാരറ്റസ് ആണ് സെൻസറി അപ്പാരറ്റസ് ആണ് ഇത്രയും വിസ്തൃതമായി ഇരിക്കുന്നത് കോശത്തിൻറെ ബാക്കിയുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിന് വലുപ്പം കൂടുതലാണ് ഈ കോശങ്ങളുടെ ബാക്കിഭാഗം അത് വളരെ ചെറുതല്ലെ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമാണ് ഇതിനെ ഒട്ടി പിടിച്ചിരിക്കാൻ സഹായിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ച് നോക്കണ്ട ഇത് മാത്രമാണ് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നത് വേറെ ആകർഷകമായ ഒരു കാര്യം കണ്ടുപിടിച്ചത് എന്താണെന്നുവെച്ചാൽ ഈ കോശങ്ങൾ പോളി ഡി ലൈസിനിൽ ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര പാടാണ് അതേസമയം കോൺകന വാലിന്റെ ഉപരിതലത്തിൽ വളരെ എളുപ്പം ഒട്ടി പിടിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് അത് വായിച്ചു മനസിലാക്കാം അപ്പോൾ ഈ ഉപരിതലത്തിൽ ഒരുപാട് ഗ്ലൈക്കോ പ്രോട്ടീനുകൾ ഉണ്ട് ഞാൻ അതിനെ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തുന്നു ഞാൻ ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ ഉള്ള ഗ്ലൈക്കോളിനെ കുറിച്ചാണ് അതായത് ഗ്ലൈക്കോപ്രോട്ടീനുകൻ ഇനി ഉദാഹരണത്തിന് നിങ്ങൾ കോൺകന വാലിനെ ഇതിന് വളരെ അടുത്ത് കൊണ്ടുവരുന്നു എന്ന് വെക്കുക നമുക്ക് കോൺകന വാലിനെ ഓറഞ്ച് നിറത്തിൽ കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു അത്ഭുതകരമായ കോൺകന വാലിനുമായുള്ള ഒരു കൂടിച്ചേരൽ കാണാൻ സാധിക്കും കാരണം കോൺകന വാലിൻ കാർബോഹൈഡ്രേറ്റുമായി ഒട്ടിപ്പിടിക്കും ഇവിടെ പ്രോട്ടീനുണ്ട് ഇത് സെൽ മെമ്പറൈൻ ഓരോ തരത്തിലുള്ള കോശങ്ങളെ കുറിച്ച് അറിയുന്നത് വളരെ രസകരമാണ് പക്ഷേ ഇതിനുവേണ്ടി നിങ്ങൾ വളരെ അധികം പ്രയത്നിക്കേണ്ടതുണ്ട് എല്ലാത്തിനെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഏത് എക്സ്ട്രാ സെക്യുലർ മെട്രിക്സ് ആണ് ഓരോ തരത്തിലുള്ള കോശങ്ങൾക്കും നല്ലത് എന്ന് അറിയണം അത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് അല്ലാതെ മായാജാലം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാൻ ഇതു ഉപയോഗിക്കും അതോടെ ഇത് ശരിയായി വരും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കോൺകന വാലിൻ ആണ് റോഡ് കോശങ്ങൾക്കും കോൺ കോശങ്ങൾക്കും നല്ലത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ചെയ്യേണ്ടിവന്നത് രണ്ട് വർഷങ്ങൾ ആണ് ആ സമയത്ത് ഞങ്ങൾ ഈ കോശങ്ങളെ വേർതിരിച്ചെടുത്തത് മീനിൻറെ റെറ്റിനയിൽ നിന്നാണ് അത് വളരെ എളുപ്പമായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചും ഒരു പ്രൈമറി കൾച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് അടുത്ത ഭാഗത്തിൽ പറഞ്ഞുതരാം അപ്പോൾ PR നെ വേർതിരിച്ചെടുക്കുക എന്നുവെച്ചാൽ ഫോട്ടോ റിസപ്റ്റർ കോശങ്ങളെ അതായത് റോഡ്സിനെയും കോൺസിനെയും വേർതിരിച്ചെടുക്കുക എന്ന് ദീർഘകാലത്തേക്ക് ഉള്ള ഈ കോശങ്ങളുടെ കൾച്ചർ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ചു സമയം എടുത്തു നമുക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അതിനനുയോജ്യമായ സബ്സ്ട്രേറ്റ് അവിടെ ഉപയോഗിക്കണം അതിന് ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഒരു രസകരമായ കാര്യമാണ് ഞങ്ങളുടെ കയ്യിൽ കവർ സ്ലിപ്പുകൾ ഉണ്ടായിരുന്നു ആ കവർ സ്ലിപ്പുകൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കി വച്ചു അതിൻറെ മുകളിൽ കോൺകന വാലിൻ വെച്ച് ആവരണം ചെയ്തു താരതമ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒന്നിൽ കോൺകന വാലിനും മറ്റേതിൽ പോളി ഡി ലൈസിനും വെച്ചു ഞങ്ങൾ അവിടെ നിരീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കൂടുതലും താൽപര്യപ്പെട്ടത് കോൺകന വാലിന്റെ സബ്സ്ട്രേറ്റ് ആണ് അവ പോളി ഡി ലൈസിനും ആയി ഒട്ടിപ്പിടിച്ചില്ല ഇത് ഒരു അത്ഭുതപ്പെടുത്തിയ കണ്ടുപിടിത്തമായിരുന്നു ഇതുപോലത്തെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ പരീക്ഷണങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് നിഗൂഢമായ നിധികൾ കിട്ടും സൽ കൾച്ചർ നെ പുതിയൊരു തലത്തിലേക്ക് അതിന് കൊണ്ടു പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് ആണ് സിന്തറ്റിക് സബ്സ്ട്രേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവയെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം